നമസ്കാരം 'ഇൻട്രൊഡക്ഷൻ ടു മെക്കാനോബയോളജി' എന്ന NPTEL കോഴ്സിലെ ഇന്നത്തെ ലെക്ച്ചറിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ലെക്ച്ചറുകളിലായി സെൽ മൈഗ്രേഷനിൽ ആക്റ്റിൻ ഡൈനാമിക്സിനുള്ള സ്വാധീനത്തെ കുറിച്ച് നാം ചർച്ച ചെയ്തിരുന്നു കോശങ്ങൾ എപ്രകാരം മൈഗ്രേറ്റ് ചെയ്യുന്നു എന്ന പഠനങ്ങളിൽ നിന്നും ലീഡിങ് എഡ്ജിൽ പ്രവർത്തന സജ്ജമായ മോളിക്യുലർ ക്ലച്ച് എന്ന ഒരു സംവിധാനം നിലവിലുണ്ടെന്ന് നമ്മൾ കണ്ടെത്തുകയുണ്ടായി നമുക്ക് മുൻപിൽ മൂന്ന് സാഹചര്യങ്ങളാണ് ഉള്ളത് ഞാനിവിടെ വരയ്ക്കുന്നതിൽ ഈ കാണുന്നതാണ് ഇന്റെഗ്രിനുകൾ ഇത് ആക്റ്റിൻ ഫിലമെന്റുകളാണ് ഇവിടെ ആക്റ്റിൻ ഫിലമെന്റുകളുമായി കൂടിച്ചേരുന്ന ഏതാനും ചില മോണോമെറുകളും നമുക്കിവിടെ ദൃശ്യമാകുന്നുണ്ട് മേല്പറഞ്ഞ ക്ലച്ച് വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം തന്നെ നമുക്ക് കണക്കിലെടുക്കാം ഇവിടെ പോളിമെറൈസേഷൻ എന്ന പ്രക്രിയ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈ കാണപ്പെടുന്നത് നമ്മുടെ ലീഡിങ് എഡ്ജിന്റെ പൊസിഷനാണ് ഇവിടെ എത്ര ഫിലമെന്റുകൾ രൂപപ്പെടുന്നുണ്ടെങ്കിലും അവ അല്പാല്പമായി പുറകിലേക്ക് തള്ളപ്പെടുന്നതായി നമുക്ക് കാണാനാകും നിലവിലുള്ള ഫിലമെന്റിലേക്ക് യോജിപ്പിക്കപ്പെട്ട പുതിയ ഫിലമെന്റാണിത് ഇതിനെ നാം റിറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇവിടെ ദൃശ്യമാകുന്ന ഈ ബാക്ക് ഫ്ലോ ഭാഗികമായി മയോസിൻ തന്മാത്രയുടെ മധ്യസ്ഥതയിൽ ഉടലെടുക്കുന്നതാണ് മേല്പറഞ്ഞ സന്ദർഭത്തിൽ മുന്നോട്ടുള്ള ചലനം പ്രാപ്യമല്ല മറിച്ച് റിട്രോഗ്രേഡ് ഫ്ലോ അഥവാ പ്രതിലോമഗതിയിലുള്ള ചലനമാണ് ദൃശ്യമാകുക എന്നാൽ ക്ലച്ച് വ്യാപൃതമാവുന്ന സാഹചര്യത്തിൽ ഫിലമെന്റുമായി അടുത്തിടപഴകുന്ന വിവിധ അഡാപ്റ്റർ പ്രോട്ടീനുകൾ നമുക്ക് കാണാൻ സാധിക്കും മേല്പറഞ്ഞ ക്ലച്ച് വിച്ഛേദിക്കപ്പെടുന്ന സാഹചര്യം തന്നെ നമുക്ക് കണക്കിലെടുക്കാം ഈ കാണിച്ചിരിക്കുന്നതാണ് ലീഡിങ് എഡ്ജിന്റെ പൊസിഷൻ എന്നാൽ ക്ലച്ച് വ്യാപൃതമാവുന്ന അവസ്ഥയിൽ ചലനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പോലെ റിട്രോഗ്രേഡ് ദിശയിലാണ് സംഭവിക്കുന്നത് മയോസിൻ മോട്ടോറുകൾ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴും സബ്സ്ട്രേറ്റിൽ ട്രാക്ഷനും പ്രൊട്രൂഷനും അനുഭവപ്പെടുന്നതായാണ് നമുക്ക് കാണാൻ സാധിക്കുക ഈ ദൂരം ആസ്പദമാക്കിയാണ് കോശം മുന്നോട്ട് ചരിക്കുന്നത് ഇത് തന്നെയാണ് ഒരു മോളിക്യുലർ ക്ലച്ചിന്റെ തത്വവും ഈ പറയുന്ന സാഹചര്യം ഒന്ന് സങ്കൽപ്പിക്കുക ഇത് ഒരു സെൽ മെംബ്രേയ്നാണ് ഇതാണ് അതിന്റെ ECM ഇന്റെഗ്രിനുകൾ പോലുള്ള മറ്റ് സംയോജിത തന്മാത്രകളും നമുക്കിവിടെ കാണാൻ സാധിക്കും തുടർന്ന് ഞാൻ ഏതാനും ചില പാളികൾ ഇവിടെ വരയ്ക്കുകയാണ് ഒടുവിൽ ഇവിടെ നിങ്ങൾക്ക് ചില ആക്റ്റിൻ ഫിലമെന്റുകളും കാണാൻ കഴിയും Z നെ ഒരു ഫങ്ഷനായി കണക്കാക്കി ഞാൻ ഗണിക്കുന്ന ഉയരം Z നെ അടിസ്ഥാനപ്പെടുത്തി തിട്ടപ്പെടുത്തുകയാണെങ്കിൽ ഇന്റെഗ്രിനുകൾക്ക് മുകളിലായി പാക്സിലിൻ FAK അതിന് മുകളിലായി വിൻക്യുലിൻ റ്റാലിൻ തന്മാത്രകളും അവയ്ക്കും മുകളിലായി ആൽഫ ആക്റ്റിനിൻ ആക്റ്റിൻ എന്നീ ഘടകങ്ങളും അഭിവിന്യസിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മേല്പറഞ്ഞ രീതിയിൽ ലഭ്യമായാൽ റിട്രോഗ്രേഡ് ഫ്ലോ നിങ്ങൾ ശരിയായ നിരക്കിൽ തിട്ടപ്പെടുത്തി എന്ന് സാരം താഴെ തട്ടിൽ ECM ഉള്ളതിനാൽ തന്നെ ഈ ഘട്ടത്തിലെ ഫ്ലോയുടെ നിരക്ക് പൂജ്യമായിരിക്കും ഈ സാഹചര്യത്തിൽ ഗതിവേഗത്തിന്റെ നിരക്ക് പൂജ്യമായതിനാൽ ബേസിൽ സ്ലിപ്പ് അനുഭവപ്പെടുകയില്ല എന്നാൽ പരമാവധി നിരക്ക് എന്നത് ഈ കാണുന്ന നീല പോയിന്റിൽ എത്തിയാൽ നിശ്ചിത വേഗത നമുക്ക് ഉറപ്പാക്കാൻ സാധിക്കും ഈ കാണുന്ന ആക്സിസ് പ്രകാരം മേൽ സൂചിപ്പിക്കപ്പെട്ട ഇന്റർ മീഡിയറ്റ് പ്രോട്ടീനുകൾക്ക് ഉയരത്തിന് ആധാരമായി അല്പം സ്ലൈഡിംഗ് സ്പീഡ് ഉണ്ടാകുക സ്വാഭാവികമാണ് ഫോക്കൽ എഡ്ഹെഷനുകൾ അടിസ്ഥാനപ്പെടുത്തി ഇന്റെഗ്രിൻ FAKപാക്സിലിൻ റ്റാലിൻ ആൽഫ ആക്റ്റിനിൻ ആക്റ്റിൻ എന്നീ വിവിധയിനം പ്രോട്ടീനുകളുടെ ചലനം ഗണിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നതും ഇതേ കണക്ക് തന്നെയാണ് ഈ കാണുന്ന തന്മാത്രകളുടെ ശരാശരി വേഗത ട്രാക്കുചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ ഇവയ്ക്ക് ഉയർന്ന വേഗത ഉണ്ടെന്നും തുടർന്ന് ഇവയുടെ വേഗതയിൽ ഗണ്യമായ തോതിൽ കുറവ് വരുന്നതായും നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇവിടെ പാക്സിലിൻ FAK എന്നീ തന്മാത്രകൾ വേഗതയിൽ റ്റാലിൻ അല്ലെങ്കിൽ വിൻക്യുലിൻ തന്മാത്രകളെക്കാൾ പുറകിലാണെന്നും എന്നാൽ ഇന്റെഗ്രിനുകൾ വേഗതയിൽ പൂജ്യത്തോടടുത്ത് നിൽക്കുന്നതായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മേല്പറഞ്ഞ രീതിയിലുള്ള ഒരു ശ്രേണിയാണ് നമുക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത് ഇത്തരത്തിൽ വേഗത കൈവരിക്കുന്നതിന് ട്രാൻസിയൻറ് കണക്റ്റിവിറ്റി എന്ന ഒരു സങ്കേതത്തിന്റെ ആവശ്യമുണ്ട് മുകളിൽ നിന്നും അടിത്തട്ടിലേക്ക് ചലനം പ്രാപ്യമാകണമെങ്കിൽ ഫോക്കൽ എഡ്ഹെഷൻ പ്രോട്ടീനുകൾ തമ്മിൽ ക്ഷണികമായ ട്രാൻസിയൻറ് കണക്റ്റിവിറ്റിയുടെ സാന്നിധ്യം അനിവാര്യമാണ് എന്നതാണ് വസ്തുത ബേസിൽ വേഗതയുടെ മൂല്യം പൂജ്യമാണെന്നും എന്നാൽ മുകളിലേക്ക് പോകുമ്പോൾ വേഗതയുടെ നിരക്കിൽ വ്യത്യാസം അനുഭവപ്പെടും എന്നതും മേല്പറഞ്ഞ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് അറിവുള്ള കാര്യമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്ത ഈ രണ്ട് പ്രബന്ധങ്ങളാണ് നിങ്ങൾക്കുള്ള അടുത്ത റീഡിങ് അസൈൻമെന്റുകൾ അതിൽ ആദ്യത്തേത് ആക്റ്റിൻ ഡൈനാമിക്സിനെ കുറിച്ച് വിശദീകരിക്കുന്ന പോണ്ടി et al സയൻസ് 2004 എന്ന പ്രബന്ധമാണ് രണ്ടാമത്തെ പ്രബന്ധം 2007 ൽ സയൻസിൽ പ്രസിദ്ധീകരിച്ച ഹ്യൂ et al ന്റേതാണ് ഇതിൽ വ്യത്യസ്ത ഫോക്കൽ എഡ്ഹെഷൻ പ്രോട്ടീനുകളുടെ ആപേക്ഷിക സ്ലൈഡിങിനെ കുറിച്ചാണ് പരാമർശിച്ചിട്ടുള്ളത് ഇതോട് കൂടി മീസെൻകൈമൽ മൈഗ്രേഷനിനെ സംബന്ധിച്ച ചർച്ചകൾക്ക് നാം ഇവിടെ വിരാമമിടുകയാണ് മീസെൻകൈമൽ മൈഗ്രേഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മീസെൻകൈമൽ അല്ലെങ്കിൽ എഡ്ഹെഷനിൽ ആശ്രിതമായ എഡ്ഹെറെന്റ് മൈഗ്രേഷൻ നമുക്ക് കാണാവുന്നതാണ് എപ്പിത്തീലിയൽ കോശങ്ങൾ ഫൈബ്രോബ്ലാസ്റ്റുകൾ ക്യാൻസർ കോശങ്ങൾ എന്നിവയാണ് സാധാരണഗതിയിൽ മേല്പറഞ്ഞ തരത്തിലുള്ള മൈഗ്രേഷൻ കാഴ്ചവെക്കുന്നത് ഇവ കൂടാതെ മറ്റനേകം കോശങ്ങളും മേല്പറഞ്ഞ രീതിയിലുള്ള മൈഗ്രേഷൻ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ അമീബോയ്ഡൽ മൈഗ്രേഷനും നിലവിലുണ്ട് അതിനാൽ ഇന്ന് നമുക്ക് അമീബോയ്ഡൽ മൈഗ്രേഷനിൽ നിന്നും ചർച്ച ആരംഭിക്കാം എന്താണ് അമീബോയ്ഡൽ മോട്ടിലിറ്റി ഉദാഹരണത്തിന് നമുക്ക് ഡെൻഡ്രൈറ്റിക് കോശങ്ങളുടെ കാര്യം തന്നെയെടുക്കാം അവയുടെ ആകൃതി ഏതാണ്ട് ഇതുപോലെയിരിക്കും മറ്റ് അനുബന്ധ കോശങ്ങളിൽ നിന്നും വിഭിന്നമായി ഡെൻഡ്രൈറ്റിക് കോശങ്ങൾക്ക് നിയതമായി നിർവചിക്കപ്പെട്ട ഒരു ആകൃതിയില്ല എന്നതാണ് വസ്തുത അവയിൽ ഈ കാണുന്നത് പോലെ ഒന്നിലധികം പ്രൊട്രൂഷനുകൾ കാണാൻ സാധിക്കും ഇവ ഗതിയും വ്യാപ്തിയും അനുസരിച്ച് വികാസം പ്രാപിക്കുന്നവയാണ് ഇത് തന്നെയാണ് മേല്പറഞ്ഞ അമീബോയ്ഡൽ മോട്ടിലിറ്റി അല്ലെങ്കിൽ അമീബോയ്ഡൽ മൈഗ്രേഷന്റെ പ്രത്യേകത ചുരുക്കിപ്പറഞ്ഞാൽ കോശങ്ങളുടെ ആകൃതിയിൽ പതിവായി കാണപ്പെടുന്ന മാറ്റങ്ങളാണ് അമീബോയ്ഡൽ മൈഗ്രേഷന്റെ ഒരു സുപ്രധാന സവിശേഷത ഫൈബ്രോബ്ലാസ്റ് അല്ലെങ്കിൽ എപ്പിത്തീലിയൽ കോശങ്ങളുടെ ശരാശരി വേഗതയെന്നത് മണിക്കൂറിൽ 20 മുതൽ 30 മൈക്രോൺ എന്ന നിലയിലാണ് നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുക എഡ്ഹെഷനെ ആശ്രയിച്ചുള്ള മൈഗ്രേഷനുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അമീബോയ്ഡൽ കോശങ്ങൾ നൂറ് മടങ്ങ് വേഗതയിലാണ് സഞ്ചരിക്കുന്നത് ആയതിനാൽ അമീബോയ്ഡൽ മോട്ടിലിറ്റി എന്ന പ്രക്രിയ എഡ്ഹെഷനെ ആശ്രയിച്ചാണോ അതോ സ്വതന്ത്രമായി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒന്നാണോ എന്ന ചോദ്യമാണ് ഞാൻ ഇവിടെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത് എഡ്ഹെറെന്റായ ഒരു വസ്തു ചലിക്കുമ്പോൾ തുടക്കത്തിൽ പ്രൊട്രൂഡ് ചെയ്യുകയും ശേഷം പുറകിലുള്ള റെയർ എഡ്ഹെഷനുകൾ ക്രമേണ വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു ആയതിനാൽ അവയ്ക്ക് എഡ്ഹെഷന്റെ നിയന്ത്രണമില്ലാതെ സാധ്യമാകുന്ന അമീബോയ്ഡൽ മൈഗ്രേഷനിലൂടെ ചലിക്കുന്ന ഒരു വസ്തുവിൽ നിന്നും വ്യത്യസ്തമായി പരിമിതമായ വേഗതയിൽ മാത്രമേ ചലനം സാധ്യമാകൂ എന്നതാണ് വസ്തുത അങ്ങനെയിരിക്കെ അമീബോയ്ഡൽ മോട്ടിലിറ്റി എന്ന പ്രക്രിയ എഡ്ഹെഷൻ സ്വതന്ത്രമായി പ്രവർത്തിക്കണം എന്ന് ആവശ്യപ്പെടുന്നതിൽ എന്തെങ്കിലും ന്യായീകരണമുണ്ടോ മേൽ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി അമീബോയ്ഡൽ മൈഗ്രേഷന്റെ ഏതാനും ചില വശങ്ങൾ ഞാൻ അവലോകനം ചെയ്യുകയാണ് അമീബോയ്ഡൽ മൈഗ്രേഷനെ നമുക്ക് "AM" എന്ന് ചുരുക്കി വിശേഷിപ്പിക്കാം നേരത്തെ സൂചിപ്പിച്ചത് പോലെ ഡെൻഡ്രൈറ്റിക് കോശങ്ങൾ ഘടനയിൽ മീസെൻകൈമൽ കോശങ്ങളെക്കാൾ വളരെ ചെറുതാണ് ഒരു അമീബോയ്ഡ് കോശത്തിന്റെ മോട്ടിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു 2D പ്ലെയ്നിൽ തന്നെ മൂന്ന് വ്യത്യസ്തയിനം ചലനങ്ങൾ സാധ്യമാണ് എന്നതാണ് വസ്തുത ഞാൻ വീണ്ടും വരയ്ക്കുകയാണ് ഇവിടെ എഡ്ഹെഷൻ ഉണ്ട് ഈ കാണുന്നതാണ് ന്യൂക്ലിയസ് ഇവിടെ നീലനിറത്തിലായി വരച്ചിട്ടുള്ളത് പ്രൊട്രൂഷനുകളാണ് പ്രധാനമായും ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് പ്രതിപാദിച്ചിട്ടുള്ളത് നീലനിറത്തിൽ കാണുന്നത് ആക്റ്റിൻ ആശ്രിത പ്രൊട്രൂഷനുകളാണ് A എന്നത് എഡ്ഹെഷനും ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൺട്രാക്ടയിലിറ്റി C യുമാണ് മേൽ സൂചിപ്പിച്ച 2D പ്രൊട്രൂഷനുകളെ നമുക്ക് ഇപ്രകാരം വരയ്ക്കാൻ ശ്രമിക്കാം ഇവിടെ മൂന്ന് വ്യത്യസ്തയിനം വശങ്ങളിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രൊട്രൂഷൻ എഡ്ഹെഷൻ പിന്നെ കൺട്രാക്ഷൻ മേല്പറഞ്ഞ മൂന്ന് ഘടകങ്ങളൂം ഒരുപോലെ ആധിപത്യം പുലർത്തിയാൽ ഇതിന്റെ നിരക്ക് ശൂന്യമെന്നും ആയതിനാൽ ഇത് ഏതാണ്ട് മീസെൻകൈമൽ മൈഗ്രേഷനോട് സമാനമാണെന്നും നമുക്ക് വ്യക്തമാകും മേല്പറഞ്ഞ സന്ദർഭത്തിൽ കോശം പ്രൊട്രൂഡ് ചെയ്യുകയും എഡ്ഹെഷൻ പ്രക്രിയയിലൂടെ പ്രൊട്രൂഷൻ സുസ്ഥിരമാകുകയും അതിന്റെ പ്രവർത്തനഫലമായി കോശം കൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു മേൽ സൂചിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ മൂന്ന് ഘടകങ്ങളും നിർദ്ധിഷ്ടനിലയിൽ സുപ്രധാനമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് എന്നതാണ് വസ്തുത നേരത്തെ നടത്തിയ പ്രസ്താവനയിൽ ഡെൻഡ്രൈറ്റിക് കോശങ്ങൾ മീസെൻകൈമൽ കോശങ്ങളെക്കാൾ ഏറെ ചെറുതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു വലുപ്പത്തിൽ തീരെ ചെറുതാണെങ്കിലും ഇവയ്ക്ക് സുഗമമായി മൈഗ്രേറ്റ് ചെയ്യുവാൻ സാധിക്കും എന്നതാണ് നീരീക്ഷണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ കൺട്രാക്ടയിലിറ്റിയുടെ താഴ്ന്ന നിരക്കിനെ സൂചിപ്പിക്കാനെന്നോണം ഞാൻ C യെ വളരെ ചെറുതാക്കിയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മേൽ നിർദ്ദേശിക്കപ്പെട്ടത് പോലെ കൺട്രാക്ഷൻറെ നിരക്ക് വളരെ തുച്ഛമാണെങ്കിലും പ്രൊട്രൂഷന്റെയും എഡ്ഹെഷന്റെയും സംയോജിത പ്രവർത്തനത്തിലൂടെ കോശങ്ങൾക്ക് മുന്നോട്ട് ചരിക്കാൻ സാധിക്കും എന്നതാണ് വസ്തുത എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് നമുക്ക് വിശദമായൊന്ന് നോക്കാം മേല്പറഞ്ഞ കോശം വലുപ്പത്തിൽ വളരെയധികം ചെറുതായതിനാൽ തന്നെയാണ് ഇത് സാധ്യമാകുന്നത് ഉദാഹരണത്തിന് നമുക്കൊരു ബലൂണിന്റെ കാര്യം തന്നെയെടുക്കാം മേല്പറഞ്ഞ ബലൂണിനെ ഒരു സൂചികൊണ്ട് കുത്തുകയാണെന് സങ്കൽപ്പിക്കുക പതിയെ ബലൂൺ ഈ കാണുന്ന ആകൃതി കൈവരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതായത് ഈ കാണുന്ന ബലൂണിന്റെ മെംബ്രേയ്നിൽ നിയതമായ ഒരു ടെൻഷൻ പ്രവർത്തനത്തിലുണ്ട് മേല്പറഞ്ഞ പ്രവൃത്തിയുടെ പരിണിതഫലമായി ടെൻഷനിൽ ക്രമാധീതമായ തോതിൽ വർദ്ധനവ് പ്രകടമാകുന്നു എഡ്ഹെറെന്റായ വസ്തുവിൽ മേല്പറഞ്ഞ മെംബ്രേയ്ൻ ടെൻഷൻ തന്നെയാണ് കോശങ്ങളെ മുന്നോട്ട് പിടിച്ച് വലിക്കുന്നതും പ്രൊട്രൂഷൻ എഡ്ഹെഷൻ എന്നീ ഘടകങ്ങൾ പ്രബലമായി നിലനിൽക്കുകയും എന്നാൽ കൺട്രാക്ടയിലിറ്റിയുടെ നിരക്ക് ഗണ്യമായി താഴ്ന്ന നിലയിൽ തുടരുകയും ചെയ്യുന്ന ഒരു ഇതരമാർഗ്ഗമാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള കോശങ്ങളിൽ പ്രകടമാകുന്ന മറ്റൊരിനം മൈഗ്രേഷൻ കൂടി നിലവിലുണ്ട് അതിനെ നമ്മൾ ബ്ലെബ് ബേസ്ഡ് മൈഗ്രേഷൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ പ്രൊട്രൂഷൻ വളരെ ചെറുതും എന്നാൽ എഡ്ഹെഷൻ കൺട്രാക്ടയിലിറ്റി എന്നീ ഘടകങ്ങളിൽ ഗണ്യമായ വർദ്ധനവ് പ്രകടമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് ഇവിടെ കോശങ്ങൾക്ക് മേൽ പുറകിൽ നിന്നും കൺട്രാക്ടയിൽ ഫോഴ്സ് പ്രയോഗിക്കപ്പെടുകയും അതിന്റെ സ്വാധീനത്തിൽ സൈറ്റോപ്ലാസത്തിൽ ഒഴുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു മേല്പറഞ്ഞ പ്രവർത്തനത്തിന്റെ ഭാഗമായി മെംബ്രേയ്ൻ വിണ്ടുകീറുകയും ബ്ലെബ് സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു തുടരെ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ കൺട്രാക്ഷൻ മൂലം കോശങ്ങൾ മുന്നോട്ട് ചരിക്കുകയും എഡ്ഹെഷനുകൾ സാവധാനം വിച്ഛേദിക്കപ്പെട്ട് ചലനം സാധ്യമാക്കുകയും ചെയ്യുന്നു ഡിക്റ്റിയോസ്റ്റീലിയത്തിലും സമാനമായ ബ്ലെബ് ബേസ്ഡ് മൈഗ്രേഷൻ പ്രവർത്തനത്തിലുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മുൻപിൽ മൂന്ന് തരത്തിലുള്ള സന്ദർഭങ്ങളാണ് നിലവിലുള്ളത് ഇതെല്ലം ഒരു 2D പ്രതലത്തിലാണ് കണ്ടുവരുന്നത് എന്നാൽ 3D പ്രതലത്തിനെ ആസ്പദമാക്കി മറ്റനേകം വ്യത്യസ്തമായ സാഹചര്യങ്ങളും നിലവിലുണ്ട് എന്നതാണ് വസ്തുത ആയതിനാൽ ഞാൻ ഇപ്പോൾ കോശത്തിന് ചുറ്റും ഒരു 3D വലയം വരയ്ക്കുകയാണ് അതിനർത്ഥം ഈ കാണുന്ന ഇന്റർസ്റ്റീഷ്യൽ മെട്രിക്സിനുള്ളിൽ തുച്ഛമായ എഡ്ഹെഷനും എന്നാൽ കൺട്രാക്ടയിലിറ്റി പ്രൊട്രൂഷൻ എന്നീ ഘടകങ്ങളിൽ ഗണ്യമായ വർദ്ധനവ് പ്രകടമാകുന്ന മേല്പറഞ്ഞ തരത്തിലുള്ള മൈഗ്രേഷൻ സാധ്യമാണ് എന്നതാണ് ഇതിൽ നിന്നും വിഭിന്നമായി എഡ്ഹെഷനും കൺട്രാക്ടയിലിറ്റിയും തീർത്തും തുച്ഛവും എന്നാൽ പ്രൊട്രൂഷന്റെ നിരക്ക് സാമാന്യം വലുതുമായ മൈഗ്രേഷനും നിലവിലുണ്ട് ഇതിനെ നാം 3D പ്രൊട്രൂസീവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് കൂടാതെ മൂന്നാമത്തെ ഇനമായ 3D കൺട്രാക്ടയിൽ മൈഗ്രേഷനും പ്രവർത്തനത്തിലുണ്ട് ഇപ്പോൾ സൂചിപ്പിച്ച 3D കൺട്രാക്ടയിലിൽ എഡ്ഹെഷൻ പ്രൊട്രൂഷൻ എന്നിവയുടെ നിരക്ക് തീർത്തും ചെറുതും എന്നാൽ കൺട്രാക്ടയിലിറ്റിയുടെ തോതിൽ വളരെയധികം വർദ്ധനവും പ്രകടമായിരിക്കും ന്യൂക്ലിയസിന്റെ വലുപ്പവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വലുതോ അല്ലെങ്കിൽ സമാനമായ വലുപ്പമുള്ളതോ ആയ പോർ സൈസ് ഉള്ള ഒരു മെട്രിക്സിൽ 3D പ്രൊട്രൂസീവിനെ നിലനിർത്താൻ സാധിക്കും എന്നതാണ് വസ്തുത തീർത്തും വലുതും ദൃഢതയേറിയ അവയവുമായ ന്യൂക്ലിയസ് തന്നെയാണ് ഇതിന് നിദാനമായി പ്രവർത്തിക്കുന്നത് എന്നാൽ 3D കൺട്രാക്ടയിലിനെ സംബന്ധിച്ചിടത്തോളം മേല്പറഞ്ഞത് പോലെ ക്രമേണ വലുതും ദൃഢതയേറിയതുമായ ന്യൂക്ലിയസിനേക്കാൾ താരതമ്യേന ചെറിയ പോർ സൈസ് ഉള്ള മെട്രിക്സാണ് ഇവയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ഇവ രണ്ടും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസവും ഇതുതന്നെയാണ് 3D കൺട്രാക്ടയിലിൽ ഒരു 3D പ്രൊട്രൂസീവ് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ വരയ്ക്കുന്ന ഈ രീതി ഒന്ന് ശ്രദ്ധിക്കുക ഇതിൽ ഈ കാണുന്നത് 3D പ്രൊട്രൂസീവ് ആണെങ്കിൽ ഇത് 3D കൺട്രാക്ടയിൽ ആണ് ഇവിടെ 3D കൺട്രാക്ടയിലിന്റെ കാര്യത്തിൽ നാം ന്യൂക്ലിയസിന്റെ ആകൃതിയിൽ രൂപഭേദം വരുത്തേണ്ടതുണ്ട് മാത്രമല്ല ഇതിൽ കാണപ്പെടുന്നത് ബ്ലെബ് ബേസ്ഡ് മൈഗ്രേഷനാണ് നാം ഇതുവരെ നടത്തിയത് വ്യത്യസ്തയിനം അമീബോയ്ഡൽ മോട്ടിലിറ്റികളുടെ ഒരു ഹ്രസ്വമായ അവലോകനം മാത്രമാണ് ഇനി നമുക്ക് ഈ കാണുന്ന പ്രത്യേക പ്രബന്ധത്തെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് ആരംഭം കുറിക്കാം പ്രസ്തുത പ്രബന്ധം അമീബോയ്ഡൽ സെൽ മൈഗ്രേഷനിലെ അഡാപ്റ്റീവ് ഫോഴ്സ് ട്രാൻസ്മിഷൻ എന്ന വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത് ഇത് 2010 ൽ പ്രസിദ്ധീകരിച്ച ഒരു നേച്ചർ സെൽ ബയോളജി പേപ്പറാണ് മേല്പറഞ്ഞ പ്രബന്ധത്തിന്റെ വിശാലമായ ലക്ഷ്യമെന്നത് എഡ്ഹെസീവ് നോൺ എഡ്ഹെസീവ് പ്രതലങ്ങളിൽ ഡെൻഡ്രൈറ്റിക് കോശങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നതെങ്ങനെ എന്ന വിശദമായ പഠനമാണ് മേല്പറഞ്ഞ ഗവേഷണപ്രബന്ധത്തിന്റെ രചയിതാക്കൾ ഡെൻഡ്രൈറ്റിക് കോശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പഠനം നടത്തുന്നത് ഇവിടെ ഡെൻഡ്രൈറ്റിക് കോശങ്ങളെ Lifeact GFP ഉപയോഗിച്ച് ട്രാൻസ്ഫെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് Lifeact എന്നത് ഫിലമെന്റുകളുമായി ബന്ധിക്കുന്ന ഒരു ഘടകമാണ് അതിന്റെ പ്രവർത്തനഫലമായി നമുക്ക് ഇവയുടെ ചലനാത്മകത ട്രാക്കുചെയ്യാനാകും എന്നതാണ് പ്രത്യേകത ഇവ ഫിലമെന്റുമായി ബന്ധിക്കുമെങ്കിലും ആക്റ്റിൻ ഡൈനാമിക്സിനെ യാതൊരു വിധത്തിലും അലോസരപ്പെടുത്താതെയാണ് പ്രവർത്തനത്തിലേർപ്പെടുന്നത് അടിസ്ഥാനപരമായി ഇവ കോശങ്ങളിലെ റിട്രോഗ്രേഡ് ഫ്ലോ നിരീക്ഷിക്കാൻ ഉതകുന്നവയാണോ എന്ന ചോദ്യത്തിലാണ് ഗവേഷകർ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മേല്പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം കാണുന്നതിനായി കോശങ്ങളെ പോളി L ലൈസീൻ കൊണ്ട് പ്ലേറ്റ് ചെയ്ത പ്രതലങ്ങളിൽ നീരീക്ഷിക്കുന്നതിനായി നിരത്തുന്നു നേരത്തെ സൂചിപ്പിച്ച റിട്രോഗ്രേഡ് ഫ്ലോയുടെ നിരക്ക് Lifeact GFP ഉപയോഗിച്ച് തിട്ടപ്പെടുത്തുന്നതെങ്ങനെ നിങ്ങൾക്ക് മുൻപിൽ ഒരു കോശമുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന നടപടിക്രമമാണ് പിന്തുടരേണ്ടത് ഇവിടെ Lifeact GFP കൊണ്ട് ട്രാൻസ്ഫെക്ട് ചെയ്ത കോശങ്ങൾ ഒന്നടങ്കം ഫ്ലൂറെസ് ചെയ്യുന്നതായി നമുക്ക് കാണാനാകും എന്നതാണ് വസ്തുത കോശം പ്രോട്രൂഡ് ചെയ്യുന്ന ഭാഗത്ത് നിന്നും കോശത്തിന്റെ ഒരു ചെറിയ വിൻഡോ നമുക്ക് പഠനത്തിനായെടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു കൈമോഗ്രാഫ് സൃഷ്ടിക്കാൻ സാധിക്കും കൈമോഗ്രാഫിലൂടെ മെംബ്രേയ്നിന്റെ ഒരു നിശ്ചിത നീളത്തിൽ പ്രകടമാകുന്ന ഫ്ലൂറസെൻസ് മറ്റ് സിഗ്നലുകൾ മെംബ്രേയ്ൻ ഫ്രണ്ട് എന്നിവ എങ്ങനെ വികാസം പ്രാപിക്കുകയും പരിണമിക്കുകയും ചെയ്യുന്നു എന്നതാണ് കോശങ്ങൾ ഇവിടെ ട്രാക്ക് ചെയ്യുന്നത് ഇതിന്റെ പരിണിതഫലമായി നിങ്ങൾ ഈ കാണുന്ന ഒരേ വരിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഫ്ലൂറസെൻസ് എപ്രകാരം ലഭ്യമാകുന്നു എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഇതിനായി നിങ്ങൾക്ക് മുൻപിൽ ഒരു ടൈം ആക്സിസും ഇവിടെയായി ഒരു ലെങ്ത് ആക്സിസും ഉണ്ട് ഉദാഹരണത്തിന് സമയം t യുടെ മൂല്യം പൂജ്യത്തിന് തുല്യമാകുന്ന സന്ദർഭത്തിൽ ഫ്ലൂറസെന്റ് സിഗ്നലുകൾ വിതരണം ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഞാനിതിനെ ഇപ്രകാരം വരയ്ക്കാൻ പോവുകയാണ് ഇതൊരു സ്ട്രിപ്പാണ് അടുത്ത നിമിഷം ഞാൻ വീണ്ടും പ്ലോട്ട് ചെയ്യുകയാണ് ഇതുപോലെ ഓരോ തവണ പ്ലോട്ട് ചെയ്യുമ്പോഴും സമാനമായ രീതിയിൽ അനേകം സ്ട്രീക്കുകൾ എനിക്ക് ലഭ്യമാകുന്നു ഇത്തരത്തിൽ ലഭ്യമായ ഓരോ സ്ട്രീക്കുകകളും ഞാൻ പരസ്പരം ബന്ധിപ്പിക്കുകയാണെങ്കിൽ മെംബ്രേയ്നിലെ നിയതമായ ഒരു ബിന്ദുവിൽ സമയത്തിന്റെ പ്രവർത്തനമായി പരിണാമം പ്രകടമാകുന്നതെങ്ങനെ എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ ലഭിച്ച നേർവര നമ്മെ സഹായിക്കുന്നു ഈ കാണുന്നതാണ് സമയം ഇത് നീളമാണ് മേല്പറഞ്ഞ നീളമെന്നത് പിന്നോട്ടുള്ള ദിശയിലാണ് കണക്കാക്കപ്പെടുന്നത് ഈ കാണുന്നതാണ് ലീഡിങ് എഡ്ജ് ഈ വീതിയിൽ കാണിച്ചിരിക്കുന്ന ഭാഗം ഏതാണ്ട് കോശത്തിന് അകത്തായി വരുന്ന ഒന്നാണ് ഈ കാണുന്ന ബിന്ദുക്കൾ പരസ്പരം ബന്ധിപ്പിക്കുന്നതിലൂടെ ഇതുപോലെ ചില വരകൾ എനിക്ക് ലഭ്യമാകുന്നു മേല്പറഞ്ഞ സന്ദർഭത്തിൽ ഇത് ലീഡിങ് എഡ്ജ് ആയതിനാലും ഈ ഭാഗം പിന്നിൽ നിന്നും ട്രെയിൽ ചെയ്യുന്നതിനാലും കോശത്തിനകത്ത് കാണപ്പെടുന്ന ഈ ബിന്ദുവിൽ നേരിയ സ്ലോപ്പോടുകൂടിയ റിട്രോഗ്രേഡ് ഫ്ലോ അനുഭവപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് വസ്തുത ഇതിലൂടെ നമുക്ക് റിട്രോഗ്രേഡ് ഫ്ലോ ലഭ്യമായി കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് ഒന്നിലധികം അളവുകൾ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും അതിലൂടെ റിട്രോഗ്രേഡ് ഫ്ലോയ്ക്ക് micronsminute അഥവാ micronshour എന്ന നിരക്കിൽ ഒരു മാനം കൽപ്പിക്കാൻ നമുക്ക് കഴിയും നിയന്ത്രിതമായ സാഹചര്യങ്ങളിൽ ലാട്രൻക്യുലിൻ എന്ന രാസപദാർത്ഥം ഉപയോഗിക്കുമ്പോൾ ആക്റ്റിൻ പോളിമറൈസേഷൻ എന്ന പ്രക്രിയയ്ക്ക് തടസ്സം സംഭവിക്കുന്നതിന്റെ ഭാഗമായി കോശങ്ങളിൽ റിട്രോഗ്രേഡ് ഫ്ലോ പ്രകടമാകുന്നതായി ചില ഗവേഷകർ നീരീക്ഷിക്കുകയുണ്ടായി ലാട്രൻക്യുലിൻ യഥാർത്ഥത്തിൽ G ആക്റ്റിൻ തന്മാത്രകളെ കണ്ടുകെട്ടുകയാണ് ചെയ്യുന്നത് അതിന്റെ പരിണിതഫലമായി പോളിമറൈസേഷൻ പ്രക്രിയ തടസ്സപ്പെടുന്നു ലാട്രൻക്യുലിൻ എന്ന രാസപദാർത്ഥം പ്രയോഗിച്ച കോശങ്ങളിലും സമാനമായ റിട്രോഗ്രേഡ് ഫ്ലോ തന്നെയാണ് കാണപ്പെടുന്നത് ആയതിനാൽ പോളിമറൈസേഷൻ പ്രക്രിയയിൽ ക്രമക്കേട് അനുഭവപ്പെട്ടാലും മേല്പറഞ്ഞ റിട്രോഗ്രേഡ് ഫ്ലോയ്ക്ക് തടസ്സം സൃഷ്ടിക്കാത്ത രണ്ട് പ്രധാന സന്ദർഭങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്താണ് ഇത് കൊണ്ട് നിർദ്ദേശിക്കപ്പെടുന്നത് ഒരു പക്ഷെ ലാമെല്ലിപോഡിയ്ക്ക് പുറകിൽ പ്രവർത്തിക്കുന്ന മയോസിൻ മോട്ടറുകളായിരിക്കാം ഒരു പക്ഷെ മേല്പറഞ്ഞ ശൃംഖലയെ പുറകോട്ട് പിടിച്ച് വലിക്കുന്നത് ഇത് വാസ്തവമാണെങ്കിൽ ലാറ്റ് പ്ലസ് ബ്ലെബ്ബിസ്റ്റാറ്റിൻ ഉപയോഗിച്ച് ഏതാനും ചില പരീക്ഷണങ്ങൾ നമുക്ക് നടത്താവുന്നതാണ് മേൽ സൂചിപ്പിച്ച ബ്ലെബിസ്റ്റാറ്റിൻ എന്ന രാസപദാർത്ഥം മയോസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ഉതകുന്ന ഇൻഹിബിറ്ററാണ് ലാറ്റ് പ്ലസ് ബ്ലെബ്ബിസ്റ്റാറ്റിൻ സംയുക്തം ഉപയോഗിക്കുന്നതിലൂടെ റിട്രോഗ്രേഡ് ചലനം അടിമുടി നിർമ്മാർജ്ജനം ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ആയതിനാൽ റിട്രോഗ്രേഡ് ചലനം സംഭവ്യമാക്കുന്നതിൽ മയോസിൻ എന്ന ഘടകം വ്യക്തമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത് പ്രസ്തുത ലെക്ച്ചർ ഞാൻ ഇവിടെ ഉപസംഹരിക്കുകയാണ് അടുത്ത ക്ലാസിൽ നമ്മൾ ഇവിടെ നിന്നും പുനഃരാരംഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ മനഃസാന്നിധ്യത്തിന് നന്ദി